ഞങ്ങൾ ഇപ്പോൾ ഐഐടി ഖരഗ്പൂർ ആകും എന്ന് വിശദീകരിക്കാൻ പോകുന്നു ഒരു സൈബർ ഫിസിക്കൽ സിസ്റ്റം നടത്തുകയും തൽഫലമായി ചില നിയന്ത്രണങ്ങൾ നടപ്പിലാകുകയും ചെയ്യുന്നു ഈ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് മെഷീനിൽ വികസനത്തിന് പ്രധാന സംഭാവനകളാണ് അതിനാൽ പ്രൊഫസർ പാൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദീകരിക്കാമോ നന്ദി പ്രൊഫസർ മിശ്രചെയ്യുന്നത് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഈ രണ്ട് പ്ലേറ്റുകളും എന്നും വിളിക്കുന്നു ഈ പരന്ന ഭാഗം ടൂളിന്റെ എന്ന പദവും അവിടെയുണ്ട് ആപേക്ഷികമായ ഒരു ചലനം ഉള്ളതിനാൽ ജോയ്നിങ് കാണാം ഇതിനു ധാരാളം ആപ്ലിക്കേഷനുകൾ കാര്യമായ വർദ്ധനവ് ഉണ്ടാവുമെന്നും പറഞ്ഞു ഈ പ്രക്രിയയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഓട്ടോമൊബൈൽ സാഹചര്യം വരുന്നു എന്നാണ് അലൂമിനിയം ഉപയോഗിച്ചു ഇൻഡസ്ടറി 4

0 വളരെ പ്രധാനമാണ് ഇവിടെ ഓൺലൈൻ കണ്ട്രോൾ സമയത്ത് എന്തെങ്കിലും തകരാർ വന്നാൽ അത് അറിയാൻ സഹായിക്കുന്നു ഈ ഫോഴ്സ് ഡാറ്റവ്യത്യാസപ്പെടുന്നു എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ക്ളൌഡിലേക്ക് വെച്ചു നടക്കുന്നു തുടർന്ന് ഇൻഫൊർമേഷനെ സഹായത്തോടെ ജോലിയുടെ കൃത്യത നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഒരു പ്രക്രിയ ഉൽപ്പാദനം ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഇവയെല്ലാം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മെഷീന്റെ മാറ്റുകയും ചെയ്യണം ഇതെല്ലാമാണ് ഇൻഡസ്ടറി 4 0 ചെയ്യുന്നു വ്യത്യസ്ത പ്രക്രിയകൾ തമ്മിൽ കണക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം കൂടാതെ മെഷിനുകളുടെ പ്രക്രിയയ്ക്ക് വളരെ നല്ലതാണ് ഇൻഡസ്ടറി4 0 കാണിക്കുന്നതിനായി അഭ്യർത്ഥിക്കുന്നു

മിസ്റ്റർ ദേവശിഷ് മിശ്ര ചെയ്യാമോ മോശം ഗുണങ്ങൾ മാറി എങ്ങനെ നല്ല ഒന്നിലേക്ക് വരുമെന്ന് ദയവായി കാണിക്കാമോ എന്റെ പിന്നിലായി നിങ്ങൾ കാണുന്നത് രണ്ട് വ്യത്യസ്ത മെറ്റീരിയലുകളിൽ ഈ യന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കും എന്നാൽ അതിനുമുമ്പ് ഈ യന്ത്രം ഇവിടെ കാണിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളെക്കുറിച്ചുംഅയയ്ക്കുന്നു സെൻസർ പാരാമീറ്ററുകൾ യെക്കുറിച്ചു വിശദീകരിക്കാമോ ഇത് ഒരു ത്രീ ആക്സിസ് ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡറാണ് ഉണ്ട് ഇത് നമുക്ക് ദിശഫോഴ്സ് നമുക്ക് റിയൽ ടൈമിൽ നിയന്ത്രിക്കാൻകഴിയില്ല

ചെയ്യാൻ പോകുന്ന ഉപകരണമാണ് ഇത് അതിനാൽ ഇവിടെ രണ്ട് അലൂമിനിയം30 mm വ്യാസമുണ്ട് ശരി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണാം അതിനാൽ ഞാൻ മെഷീൻ ഇത് ഒരു റിമോട്ട് കൺട്രോൾഡ് പാനൽ ഇവിടെ നിങ്ങൾ കാണുന്നത് പരമ്പരാഗതമായ ഒരു വെർട്ടിക്കൽ മില്ലിങ് മെഷീനാണ് ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കും ഇതാണ് വെർട്ടിക്കൽ മാനുവൽ മില്ലിംഗ് മെഷീൻ ഈ സ്പിൻഡിലിന്റെ ഘടിപ്പിച്ചിരുന്നു ഈ സ്പിൻഡിലുകൾക്കൊപ്പം ഉണ്ട് ഹീറ്റ് ഇൻപുട്ട് ഗുണനിലവാരം നിരീക്ഷിക്കാൻ സാധിക്കും ഇത് ഒരു CNC നിയന്ത്രിത മെഷീൻ ഉണ്ട് അതിനാൽ സ്പിൻഡിലിനുള്ളിൽ രേഖപ്പെടുത്തുന്നു